അങ്ങനെ നമുക്ക് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിനെക്കുറിച്ച് അൽപ്പം അറിയാം കൂടാതെ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനുകളെക്കുറിച്ചും നമുക്ക് ചുരുക്കമായി അറിയാം അല്ലേ മിക്കപ്പോഴും ഇൻഡക്ഷൻ മെഷീനായി ഒരു ഏകദേശ അല്ലെങ്കിൽ തത്തുല്യമായ സർക്യൂട്ട് നിർമ്മിക്കാൻ നമ്മ ൾ ചിലവഴിക്കുന്നു ശരി അല്ലേ അപ്പോൾ അടുത്തത് ഈ കോഴ്സിന്റെ അവസാന വിഷയം ആയിരിക്കും അതിനാൽ ഇത് വിശദമായി ചർച്ചചെയ്യില്ല പക്ഷേ ആദ്യ വർഷ തലത്തിൽ ഉള്ള ചില ആശയങ്ങൾ ഇവിടെ ചുരുക്കത്തിൽ ലഭിക്കും അതിനാൽ ഡിസി മോട്ടോറുകൾ ഉപയോഗിച്ച് ആരംഭിക്കുക ആണ് കാര്യങ്ങൾ വളരെ ലളിതമാണ് ഡിസി മെഷീന്റെ അടിസ്ഥാന തരം ഒരു കമ്മ്യൂട്ടേറ്ററിന്റെ തരമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രവാഹ ദിശ മാറുന്ന വൈദ്യുതി പ്രവർത്തിക്കുന്ന യന്ത്രം ആണ് അതിനെ കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ഉപകരണം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ചില വ്യവസ്ഥകളിൽ ദിശ മാറുന്ന വൈദ്യുതധാരയെ നേർധാരാ വൈദ്യുതി ആക്കി പരിവർത്തനം ചെയുന്നു യഥാർത്ഥത്തിൽ DC വോൾട്ടേജ് അല്ലെങ്കിൽ DC കറന്റ് എന്നതിനർത്ഥം അത് സ്ഥിരമായി തുടരുന്നത് എന്നാണ് അതിനാൽ പൊതുവെ പവർ എന്ന് വിളിച്ചതിൽ അത് എസി ആണ് എന്നാൽ അത് ഡിസി ആയി പരിവർത്തനം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ ഡിസി മോട്ടോറുകളെ പറ്റി പഠിക്കും ഒരു ജനറേറ്ററിന്റെ തത്വം വളരെ ലളിതമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് വിശദീകരിക്കാം അതിനാൽ നിങ്ങൾ അത് പഠിച്ചപ്പോൾ ഏക ഘട്ട എസി സർക്യൂട്ടുകൾ ഇഎംഎഫ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് കാണിച്ചു അതിനാൽ ഈ ഡയഗ്രവും നോക്കുക ഇത് കാന്തമാണ് ഇത് N കാന്തമാണ് N S എന്നീ രണ്ട് ധ്രുവങ്ങൾ അവിടെയുണ്ട് ഒരു കോയിൽ ഘടികാരദിശയിൽ കറങ്ങുന്നുവെന്ന് സങ്കൽപ്പിക്കുക ചലനം ഘടികാരദിശയിൽ നൽകിയിരിക്കുന്നു ഇത് വൈദ്യുതി വഹിക്കുന്ന കമ്പിച്ചുരുളിന്റെ ഒരു വശമാണ് ഇത് അതിന്റെ തന്നെ മറുവശവും ഒരു തിരിവ് മാത്രം കാണിക്കുന്നു ഇപ്പോൾ വൈദ്യുതി വഹിക്കുന്ന കമ്പിച്ചുരുള് ഈ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ഫ്ലക്സ് N ൽ നിന്ന് S ലേക്ക് നീങ്ങുകയും അത് കറങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഈ സ്ഥാനത്ത് നിങ്ങൾ വിളിക്കുന്ന ഫ്ലക്സ് ലിങ്കേജുകൾ പരമാവധി ആയിരിക്കും ഇത് കോയിലിന്റെ മറുവശമാണ് ബാക്ക് കോയിൽ ഇതിനെ ആണ് നിങ്ങൾ ധ്രുവം എന്ന് വിളിക്കുന്നത് അതിനാൽ ഇവിടെ ഫ്ളക്സ് ലിങ്കിംഗ് ഉണ്ടാകില്ലെന്നും ഇവിടെ ഒന്നും ഉണ്ടാകില്ലെന്നും അനുമാനിക്കാം ഈ അവസ്ഥയിൽ മാത്രമേ ഫ്ലക്സ് ലിങ്കിംഗ് പരമാവധി ആയിരിക്കൂ ഒരു തിരിവ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ തിരിവുകൾ ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് അത് കറങ്ങുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് പരമാവധി ആയിരിക്കും ആ സമയത്ത് അത് 90o യിൽ കറങ്ങുന്നു ആ സമയത്ത് ഈ സ്ഥാനത്ത് അത് ഇങ്ങനെ നീങ്ങുന്നു അതിനാൽ ഈ സ്ഥാനം മുകളിൽ വരും ആ സമയത്ത് ഫ്ലക്സ് ലിങ്കേജ് 0 ആയിരിക്കും കാരണം ഇത് ഇപ്പോൾ ആ സമയത്ത് ഇതിന് പുറത്തായിരിക്കും അതുകൊണ്ടാണ് ഇത് കറങ്ങുന്നത് ഒരു വ്യതിചലിക്കുന്ന വൈദ്യുതി ഇ എം എഫ് വൈദ്യുതി വാഹക കമ്പിച്ചുരുളിൽ പ്രചോദിക്കപ്പെടും ഈ ഭാഗത്തേക്ക് പോയത് എന്താണെങ്കിലും ഇത് ബാഹ്യബാഹ്യമായ ബന്ധിപ്പിക്കൽ ആണ് എന്തെങ്കിലും സംവിധാനം വാങ്ങുക എന്ന് കരുതുക യഥാർത്ഥത്തിൽ ഇത് N മുതൽ S വരെയുള്ളതാണ് അതിനാൽ ഇതാണ് ഫ്ളക്സിൽ ഒന്ന് വൈദ്യുതിക്ക് ഇതര മാർഗം എന്തെങ്കിലും നൽകിയിരിക്കുന്നു ഒരേയൊരു കാര്യം ഈ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഇ എം എഫ് പ്രചോദിപ്പിക്കുക ഉള്ളു ഇവ രണ്ടും യാദൃശ്ചികമാണ് പിന്നിലെ കോയിലിന് താഴെയല്ല കാരണം ഇതാണ് പ്രധാന ഭാഗം ഇത് പരമാവധി ഫ്ലക്സും ഇ എം എഫ്ഉം ബന്ധിപ്പിക്കുന്ന പരമാവധി സ്ഥാനം ഇതാണ് ഇതൊരു ലളിതമായ കാര്യമാണ് ഇതൊരു പ്രാഥമിക ജനറേറ്ററാണ് ഇപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഇതും ഇഎംഎഫും കർശനമായി അടിസ്ഥാനപരമായി ഫാരഡെയുടെ വൈദ്യുതകാന്തിക പ്രേരണ നിയമം Faraday's law of electromagnetic induction അനുസരിച്ചാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന് അതിനാൽ ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിന്റെ അടിസ്ഥാന അവശ്യ ഭാഗങ്ങൾ കാന്തികക്ഷേത്രത്തിലാണ് എന്നതാണ് ഇവിടെ ചോദ്യം ഇപ്പോൾ കണ്ടക്ടറുകൾ ഫ്ളക്സ് മുറിക്കാനും പ്രേരിപ്പിക്കുന്നു അതിനാൽ ഒരു കാന്തികക്ഷേത്രം ആവശ്യമാണ് അതിനാൽ ഇപ്പോൾ ഫ്ലക്സ് മുറിക്കുന്നതിന് നീക്കുക ഈ ചിത്രത്തിൽ ഇത് തിരശ്ചീന സ്ഥാനമാണ് ഇത് മറ്റൊരുചിത്രമാണ് ലംബ സ്ഥാനം ഈ സാഹചര്യത്തിൽ ഞാൻ എടുത്ത ചിത്രമാണ് ഇവയെല്ലാം പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഇതൊരു N ധ്രുവം ആണ് ഈ വശം l ആണ് ഈ വശം m ആണ് ഇത് N ആണ് ഇത് P ആണ് ഇതിനകം ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ സ്ഥാനത്ത് കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് ഒരു ന്യൂട്രൽ സ്ഥിതി ആണ് എന്ന് പറയാം ഇതിനെ വൈദ്യുതിവാഹക കമ്പിച്ചുരുളിന്റെ ഒരു വശം എന്ന് പറയാം ഇതാണ് വൈദ്യുതിവാഹക കമ്പിച്ചുരുളിന്റെ മറുവശം ഇതാണ് പിൻ വശം ഇതാണ് പുറത്തുവരുന്നത് അതിനാൽ ഇവിടെയും വോൾട്ടേജ് മാത്രമേ ഉണ്ടാകൂ ഇത് 0 സ്ഥാനമാണെന്ന് പറയുക അതിനാൽ ഈ സ്ഥാനത്ത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില മാർഗങ്ങൾ ഉപയോഗിച്ച് അത് കറങ്ങുന്നു അതിനാൽ ഈ സ്ഥാനത്ത് പ്രേരിപ്പിച്ച വോൾട്ടേജ് 0 ആയിരിക്കും കാരണം ഈ സ്ഥാനത്ത് ഇവിടെ ഫ്ലക്സ് ലിങ്കേജ് ഇല്ല അതിനാൽ ഈ കാര്യം ഇതാണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ അതിനാൽ ഇവിടെ 0 അടയാളപ്പെടുത്തിയിട്ടില്ല അതിനാൽ ചിലത് 0 സ്ഥാനമാണ് തുടർന്ന് 1 2 3 ഈ രീതിയിൽ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഈ രീതിയിൽ കറങ്ങുമ്പോൾ 0 മുതൽ 180 വരെ പറയുക 180 o തിരിക്കുമ്പോൾ ഇ എം എഫ് മാറിമാറി വരുന്ന സിംഗിൾ ഫേസ് മെഷീനുകൾ ഞാൻ കണ്ട അതേ വഴിയാണിത് അതിനാൽ 0 മുതൽ 180o വരെ ഇത് ആയിരിക്കും അടുത്ത 180 മുതൽ 360 വരെ ഇത് ആയിരിക്കും അതായത് നിങ്ങൾ 0 മുതൽ 360 o വരെ എന്ന് വിളിക്കുന്നത് ഇത് പൂർണ്ണമായും കറങ്ങുകയാണെങ്കിൽ ആയിരിക്കും അതിനാൽ ഇവിടെ പോസിറ്റീവ് വംശത്തിന്റെ സ്വാധീനം ആയിരിക്കും പോസിറ്റീവ് വോൾടേജ് ആയിരിക്കും ആകർഷിക്കുക ഈ വശം നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഇത് നീങ്ങുമ്പോൾ ഇത് ഒരു ഇതരമാർഗ്ഗം ആണ് എപ്പോഴൊക്കെ നിങ്ങൾ ആ ഫേസർ എന്ന് വിളിക്കുന്നതും ഇ എം എഫ് സമവാക്യവും സിംഗിൾ ഫേസ് സർക്യൂട്ടിന്റെ തുടക്കവും ഒരേ തത്വശാസ്ത്രമായിരുന്നു അതിനാൽ അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് 1 2 3 4 മുതൽ 0 11 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ 0 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 30 degree വേഗത കൈവരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ഇത് ഘടികാരദിശയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇതും ഇതുപോലെ തന്നെയും വോൾട്ടേജ് പ്രചോദിപ്പിക്കും എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് തൽക്ഷണമാണെന്നും ഇത് ഒരു പ്രത്യേക തൽക്ഷണ സ്ഥാനo ആണെന്നും മനസിലാക്കാം ഈ കോയിൽ ചെയ്യുമ്പോൾ I m മുകളിൽ വരും ഈ P m p l m ഇതാണ് l m ഈ p n എന്നിവ താഴെ വരും അതിനാൽ ആ സമയത്ത് ഇത് ഇതുപോലെയാകും വീണ്ടും അത് മറ്റൊരു 180 o ലേക്ക് പോകുമ്പോൾ ഞാൻ അത് വ്യക്തമാക്കട്ടെ അപ്പോൾ വീണ്ടും അത് അതേ സ്ഥാനത്ത് ആയിരിക്കും അതിനാൽ ഈ തവണ വൈദ്യുതിയുടെ ചാലകശക്തി അത് ഭ്രമണം ചെയുമ്പോൾ തന്നെ ഇതര മാർഗം പോലെ എതിരായി രൂപപ്പെടും ഇതിലെ തത്ത്വശാസ്ത്രം സിംഗിൾ ഫേസ് എസി സർക്യൂട്ടിൽ തുടക്കത്തിൽ കണ്ടു അതിനാൽ ഇതാണ് എസി ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ നെഗറ്റീവ് ഡിസി യിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് അതിനർത്ഥം ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം നിങ്ങൾ പോസിറ്റീവ് എന്ന് വിളിക്കുന്നതാണ് അതിനാൽ ഇതരമാർഗം എന്നൊരു പ്രശ്നമില്ല അതിനാൽ ചില യാന്ത്രികപ്രവർത്തനം വഴി ഡിസി കറന്റ് ലഭിക്കും എസി കറന്റ് അല്ലെങ്കിൽ എസി വോൾട്ടേജിന് പകരം ഡിസി വോൾട്ടേജും ഡിസി കറന്റും ലഭിക്കും അതിനാൽഅങ്ങനെയെങ്കിൽ ഇതരമാർഗം മുഖേന ഇ എം എഫ് രൂപപ്പെടും ഇപ്പോൾ അടുത്തത് പ്രവാഹ ദിശ മാറുന്ന വൈദ്യുതിയെ ഒരു കമ്മ്യൂട്ടേറ്റർ വഴി നേർധാരാ വൈദ്യുതി ആക്കി മാറ്റുന്നതാണ് സാധാരണയായി ഒരു ഡിസി മെഷീനിലെ കമ്മ്യൂട്ടേറ്ററിന് നിരവധി കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ആ ചിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവാഹ ദിശ മാറുന്ന വൈദ്യുതിയെ നേർധാരാ വൈദ്യുതി ആക്കി പരിവർത്തനം ചെയ്യുന്നതിന് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്ന ജനറേറ്റർ ഷാഫ്റ്റിന്റെ യാന്ത്രികമായ ഭ്രമണം വഴി പ്രവർത്തനക്ഷമമാക്കുന്ന മെക്കാനിക്കൽ സ്വിച്ചിംഗ് ഉപകരണം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതാണ് കോയിലിന്റെ സ്ഥാനം ഇതാണ് N p ഇതാണ് l N ഇത് കോയിലിന്റെ പിൻ വശമാണ് എന്നതിന്റെ ചില ഉദാഹരണമാണിത് ഇവിടെ ഈ സ്ഥാനം എ ഈ ഭാഗം ബി ഇവ രണ്ടും കമ്മ്യൂട്ടേറ്റർ ന്റെ ഭാഗങ്ങളാണെന്ന് കരുതുക ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് യഥാർത്ഥത്തിൽ ആവരണം ചെയ്യപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ആ ഷാഫ്റ്റ് അവിടെയുണ്ട് നിങ്ങൾ നോക്കിയാൽ തുറന്ന ഡിസി യന്ത്രം പരീക്ഷണശാലയിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് നന്നായി നോക്കാം ഈ കമ്പിച്ചുരുൾ ഇത് പൊതുവെ കാർബൺ കൊണ്ട് നിർമ്മിച്ച ഒരു ബ്രഷ് ആണെന്ന് കരുതുക ഇതാണ് വശം ഇതാണ് വശം ഇതാണ് N ധ്രുവം ഇതാണ് S പോൾ അങ്ങനെയെങ്കിൽ ഇത് ഘടികാരദിശയിൽ കറങ്ങുന്നുവെന്ന് കരുതുക അങ്ങനെ കമ്പിച്ചുരുളിന്റെ ഈ ഒരു വശം അതായത് കമ്മ്യൂട്ടേറ്റർ a യുടെ ഒരു സെഗ്മെന്റിൽ ആദ്യം അവസാനിക്കുന്നു മറുവശത്ത് അത് a ആണ് കമ്മ്യൂട്ടേറ്ററിന്റെ മറ്റൊരു വശം b എന്ന ഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ അങ്ങനെയെങ്കിൽ അത് കറങ്ങുമ്പോൾ ഇതര വസ്തുക്കളെ വഴി കണ്ടുവെന്ന് കരുതുക അത് കറങ്ങുമ്പോൾ യന്ത്രപ്രവർത്തനം അങ്ങനെയാണ് അതിനാൽ ആദ്യത്തെ 180o വരെ വോൾട്ടേജ് ഇതുപോലെയായിരിക്കും ഇത് ഈ കോയിൽ വശം a യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കാരണം അടുത്ത പരിവൃത്തിയിൽ അത് നെഗറ്റീവ് വശത്തേക്ക് പോകും സ്വയമേവ അത് അതിന്റെ സ്ഥാനം മാറ്റി നെഗറ്റീവ് ആയി പോകും അതാണ് DC മെഷീൻ ബ്രഷ് അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ എന്നതിൽ നിന്നുള്ള ഈ കോയിൽ സ്ഥാനം സ്വയമേവ പ്രേരിതമായ നെഗറ്റീവ് വോൾട്ടേജിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ് വശത്തേക്ക് ഈ യന്ത്ര പ്രവർത്തനം വഴി ബന്ധിപ്പിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ മാത്രമേ കാണിക്കൂ ഒരു ഡിസി മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് 1000 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകളും ആവരണം ചെയ്തിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അടുത്ത പകുതി ചംക്രമണത്തിൽ നെഗറ്റീവ് വോൾട്ടേജ് സ്വയമേവ പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ ഈ കോയിൽ വശം നെഗറ്റീവ് വശത്തേക്ക് മാറ്റും അതിനാൽ അങ്ങനെയെങ്കിൽ മറ്റൊരു കോയിൽ വശത്തിനും വിപരീതമായി സംഭവിക്കും അതായത് വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഡിസി മെഷീന്റെ യന്ത്രികപ്രവർത്തനമാണ് ഡിസി മെഷീൻ യഥാർത്ഥത്തിൽ ഇതര വോൾട്ടേജ് അല്ലെങ്കിൽ വൈദ്യുതി സൃഷ്ടിക്കുന്നു എന്നാൽ ഈ കമ്മ്യൂട്ടറും ഈ മെക്കാനിസവും കാരണം യഥാർത്ഥത്തിൽ ഈ ധ്രുവത ഈ കൂടാതെ ചിഹ്നം ഒരു പ്രത്യേക നിമിഷത്തിൽ മാത്രമായി നിലനിൽക്കും അല്ലെങ്കിൽ അത് ന്യൂട്രൽ സോണിന് കാരണമാകുമ്പോൾ നിങ്ങൾക്ക് പറയാം അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് പ്രചോദിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ ഇവിടെ യാന്ത്രികമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കോയിൽ യാന്ത്രികമായി മറ്റൊന്നിലേക്ക് നീങ്ങുകയും മറ്റേ കോയിൽ വശത്തിന് വിപരീതമായി സംഭവിക്കുകയും ചെയ്യും അതിനാൽ അത്തരം വോൾട്ടേജ് പോസിറ്റീവ് ആയി തുടരും അതിനാൽ ഇത് DC വോൾട്ടേജ് ആണെന്ന് കരുതുക വരയ്ക്കുമ്പോഴെല്ലാം ഇത് ഈ സ്ഥിരാങ്കം പോലെയാണ് കാരണം നേർധാരാ വൈദ്യുതിയുടെ വോൾട്ടേജ് സ്ഥിരമാണ് എന്നാൽ ഒരു ഡിസി മെഷീനിൽ നിങ്ങൾക്ക് നിരവധി സെഗ്മെന്റുകൾ ഉണ്ട് നിങ്ങൾ കൃത്യമായ ചിത്രത്തിൽ കാണാത്തിടത്തോളം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു നേർധാരാ വൈദ്യുതി പോലെ കാണപ്പെടുന്നു നിങ്ങൾ നേർരേഖയാണ് എന്നാൽ അടിസ്ഥാനപരമായി അതിന് ഞാനിവിടെ വരയ്ക്കുന്ന ഒരു ഉണ്ടായിരിക്കും ഇതിന് വളരെ ചെറിയ തരംഗങ്ങൾഉണ്ടാകും ഇതുപോലുള്ള വളരെ ചെറിയ തരംഗങ്ങൾ നിങ്ങൾക്കറിയാം അത് പോസിറ്റീവ് വശം ആണെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എല്ലാ തരംഗങ്ങളും പോസിറ്റീവ് വശമായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് വശമായിരിക്കും ഇതുപോലെയായിരിക്കും ഇതിലേക്ക് നോക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഇത് നേർധാരാ വൈദ്യുതി ആണെങ്കിലും അത് കൃത്യമായി ഒരു നേർരേഖയല്ല നിരവധി ഭാഗങ്ങൾ ഉള്ളതിനാൽ അത്തരം നിരവധി അർദ്ധചക്രങ്ങൾ ഉണ്ട് പക്ഷേ ഇത് ഡിസിയാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഇതിനെയാണ് ഈ യന്ത്രപ്രവർത്തനം എന്ന് വിളിക്കുന്നത് അതായത് ഓരോ പകുതി ഇടവേളകളിലും നെഗറ്റീവിലേക്ക് പോകുമ്പോൾ കോയിലിന്റെ ഒരു വശം ബ്രഷ് നെഗറ്റീവ് വശവുമായി സ്വയമേവ ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് വോൾട്ടേജ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയി തുടരും അതിനാൽ ഇത് നേർധാരാ വൈദ്യുതി ആണ് നേർധാരാ വൈദ്യുതി ആയിരിക്കുമെന്നതിനാൽ ലോഡ് പ്രതിരോധത്തിന്റെ ആകെത്തുകയാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അതായത് പവർ ജനറേറ്ററിൽ വൈദ്യുതി ഇങ്ങനെ ഒഴുകും അതിനാൽ ഇത് ഒരു വിശദീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ രേഖാചിത്രം ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തത് എന്നാൽ യഥാർത്ഥ ഡിസി മെഷീനിൽ നിങ്ങൾക്ക് കമ്മ്യൂട്ടേറ്ററിന്റെ നിരവധി ഭാഗങ്ങൾ ഉണ്ട് അവ അടിസ്ഥാനപരമായി പരസ്പരം ആവരണം ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പക്കലുള്ളത് ഇതാണ് അതിനാൽ ഇവയെല്ലാം ഇപ്പോൾ ഡിസി മെഷീനുകളുടെ നിർമ്മാണം മാത്രമാണ് ഇവ കൃത്യമായി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും ഈ ഡയഗ്രം ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ചിത്രത്തിൽ നിന്ന് എടുത്തതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കിയാൽ ഇത് പൊതുവിജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ് അതിനാൽ ഇത് കാന്തിക പ്രവാഹത്തിന്റെ സാധാരണ രേഖയാണ് ഇത് ഒരു ഷാഫ്റ്റാണ് ഇതാണ് ആർമേച്ചർ ഇത് ഒരു കാന്തിക ഘടനയാണ് ഇത് പ്രധാന ഘടന ആണ് യഥാർത്ഥത്തിൽ ഇത് മുറിച്ചതാണ് കൂടാതെ ഇത് വിൻഡിംഗ് കോയിൽ സ്പേസ് അനുവദിക്കുന്നതിനുള്ള ഒരു സാധാരണ സ്ഥാനം ആണ് അവിടെ ധാരാളം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കാം ഇതാണ് N ധ്രുവം ഇവയാണ് ഇതാണ് S ധ്രുവം അത് ഒരു പ്രവർത്തനതലം ആണ് ഇതാണ് ഫ്ലക്സ് പാത കാണിക്കുന്നത് ധ്രുവത്തിന്റെയും അർമേച്ചർ ഉപരിതലത്തിന്റെയും ഘട്ടങ്ങൾ തമ്മിലുള്ള വായു വിടവാണിത് ഈ വായു വിടവ് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇത് ഒരു ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടോറാണ് അവിടെ നിങ്ങൾ കാന്തിക ഘടന എന്ന് വിളിക്കുന്നു ഇതാണ് ഷാഫ്റ്റ് ഇത് ഈ ഹ്രസ്വ ചർച്ചയുടെ പൂർണതയ്ക്കായി ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഇതാണ് പ്രധാന ഘടന അടുത്തതായി ഡിസി മെഷീനിൽ രണ്ട് പ്രധാന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു സ്ഥായി ഭാഗം പ്രധാനമായും കാന്തിക പ്രവാഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഭ്രമണം ചെയ്യുന്ന ഭാഗത്തെ ആർമേച്ചർ എന്ന് വിളിക്കുന്നു അവിടെ മെക്കാനിക്കൽ ഊർജ്ജം ജനറേറ്ററിനുള്ള വൈദ്യുതോർജ്ജമായും അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം മോട്ടോറിനുള്ള മെക്കാനിക്കൽ ഊർജ്ജമായും പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈ കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം ഇപ്പോൾ നിശ്ചലവും കറങ്ങുന്നതുമായ ഭാഗങ്ങൾ ഒരു വായു വിടവ് ഉപയോഗിച്ച് പരസ്പരം വേർതിരിക്കുന്നത് ഞാൻ ഈ രേഖാചിത്രത്തിൽ കാണിക്കുന്നു ഒരു ഡിസി മെഷീന്റെ നിശ്ചലമായ ഭാഗത്ത് പ്രധാന ധ്രുവങ്ങൾ അടങ്ങിയിരിക്കുന്നു അവ കാന്തിക പ്രവാഹം സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രധാന ധ്രുവങ്ങൾക്കിടയിൽ ഇടപഴകുന്ന ധ്രുവങ്ങൾ കമ്മ്യൂട്ടേറ്ററിലെ ബ്രഷുകളുടെ പ്രവർത്തനത്തെ തിളങ്ങുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു ഫ്രെയിമിലോ നുകത്തിലോ ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഇന്റർ പോൾ ഈ കമ്മ്യൂട്ടേറ്റിംഗ് ധ്രുവങ്ങളെ കുറിച്ച് ഈ പാഠ്യപദ്ധതതിയിൽ നിങ്ങൾ പഠിക്കാത്ത മറ്റ് കാര്യങ്ങൾ നിങ്ങൾ രണ്ടാം വർഷത്തിലോ മൂന്നാം വർഷത്തിലോ ഇലക്ട്രിക്കൽ മെഷീൻ കോഴ്സിൽ പഠിക്കും പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ധ്രുവങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കറങ്ങുന്ന ഒരു സിലിണ്ടർ ഘടനയാണ് അർമേച്ചർ അതിൽ ഒരു സ്ലോട്ട്ഡ് ആർമേച്ചർ കോർ ഉൾപ്പെടുന്നു ആർമേച്ചർ കോർ സ്ലോട്ടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വൈൻഡിംഗ് ഒരു കമ്മ്യൂട്ടേറ്റർ ഒരു ബ്രഷ് ഗിയർ എന്നിവ ഉൾപ്പെടുന്നു ഇതെല്ലാം ഒരുപക്ഷേ നിങ്ങൾ മെഷീൻ ഡിസൈൻ കോഴ്സിലും പഠിക്കും അടുത്തത് ഒരു ഡിസി മെഷീന്റെ ഭാഗങ്ങളുടെ വിവരണം ചിത്രം 5 യഥാർത്ഥത്തിൽ നാല് ധ്രുവങ്ങൾ ഉള്ള ഡിസി മെഷീന്റെ വിഭാഗീയമായ കാഴ്ച കാണിക്കുന്നു ആദ്യത്തേത് ഡയഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഫ്രെയിമാണ് ഒരു യന്ത്രത്തിന്റെ നിശ്ചലമായ ഭാഗമാണ് ഫ്രെയിം അതിൽ പ്രധാനവും ഇത് യഥാർത്ഥത്തിൽ ഭ്രമണ ദിശയാണ് ഇതാണ് ബ്രഷ് ബാർ ഇതാണ് ആർമേച്ചർ വൈദ്യുതി എവിടെ കണ്ടാലും ഈ കണ്ടക്ടർ ഉണ്ട് ഇവിടെ അത് അടിസ്ഥാനപരമായി ഉണ്ട് ഒരു a ആണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ കണ്ടക്ടറാണ് അതായത് പേജിലേക്ക് വൈദ്യുതി പ്രവേശിക്കുന്നത് കാണും കൂടാതെ നിങ്ങൾ പേജിലേക്ക് പ്രവേശിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ തള്ളവിരൽ വൈദ്യുതധാരയുടെ ദിശയായിരിക്കും ഈ വിരലുകൾ ഫ്ലക്സിന്റെ ദിശയായിരിക്കും സമാനമായി ഈ വശം എസ് ധ്രുവത്തിന് കീഴിൽ ഇതും ഡോട്ട് ആണ് അതായത് എന്നാൽ പ്രതലത്തിലേക്ക് പ്രവേശിക്കുന്ന വൈദ്യുതധാര പിന്നെ ഡോട്ട് എന്നാൽ അത് പ്രതലത്തിൽ നിന്ന് വിടുന്നു എന്നാണ് അതിനാൽ ഇതാണ് വൈദ്യുതധാരയുടെ പ്രതികരണം ഇത് വിരൽ ചുരുളായിരിക്കും ഇത് ഫ്ലക്സിന്റെ ദിശയായിരിക്കും ഇത് ഇന്റർ പോൾ ആണ് ഇവ രണ്ട് ടെർമിനലുകളാണ് ഇതാണ് ഇതാണ് ഇതാണ് ഫീൽഡ് റിയോസ്റ്റാറ്റ് ഫീൽഡ് റെസിസ്റ്റൻസ് ഈ രീതിയിൽ ഇത് പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഫീൽഡ് വൈൻഡിംഗ് ആണ് ഇത് ഇവിടെ പോൾ ഷൂ ആണ് ഇത് ഇന്റർ പോളാണ് അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റർ ആണ് ഇത് വളരെയധികം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റാണ് ഡയഗ്രാമിൽ ഇത് കുറവാണ് നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകും ഇത് ഫ്രെയിം ആണ് ഇതാണ് ആർമേച്ചർ കണ്ടക്ടറുകൾ അതിനാൽ ഇത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു പദ്ധതിരൂപത്തിൽ ഉള്ള ഒരു രേഖാചിത്രം ആണ് അതിനാൽ നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 4 ധ്രുവ യന്ത്രങ്ങളാണ് അതിനാൽ നിങ്ങൾ 4 ബ്രഷുകൾ 1 2 3 4 കാണും അതിനാൽ ഇതാണ് പ്രധാന കംമ്യുട്ടേറ്റിങ് ധ്രുവങ്ങൾ അതിലൂടെ മെഷീൻ ബെഡ് പ്ലേറ്റിലേക്ക് ബോൾട്ട് ചെയ്യുന്നു നുകം പ്രധാന കമ്മ്യൂട്ടേറ്റിംഗ് പോൾ ഫ്ലക്സുകളുടെ പാതയായി വർത്തിക്കുന്ന വളയത്തിന്റെ ആകൃതിയിലുള്ള ഭാഗത്തെ നുകം എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്റർ പോളാണ് കമ്മ്യൂട്ടേറ്റർ ഉണ്ട് ഇതാണ് ഫ്രെയിം ഇതാണ് ഷണ്ട് പോൾ ലോഡ് ടെർമിനലുകൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് ഫീൽഡ് വൈൻഡിംഗ് ഇതാണ് ദിശ ഇതാണ് അർമേച്ചർ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് ആദ്യകാല മെഷീനുകളിൽ ഫ്രെയിമിന്റെയോ നുകത്തിന്റെയോ ഘടകമായി ഉപയോഗിച്ചിരുന്ന കാസ്റ്റ് ഇരുമ്പ് എന്നാൽ ഇപ്പോൾ അത് കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു കാരണം കാസ്റ്റ് ഇരുമ്പ് ഒരു മീറ്ററിന് 0 8 വെബർ എന്ന ഫ്ലക്സ് സാന്ദ്രതയാൽ പൂരിതമാണ് കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള പൂരിതാവസ്ഥ ഒരു മീറ്ററിന് 1 കാസ്റ്റ് ഇരുമ്പ് ഫ്രെയിമിന്റെ പരിച്ഛേദം കാന്തിക പ്രവാഹത്തിന്റെ അതേ മൂല്യത്തിന് കാസ്റ്റ് സ്റ്റീൽ ഫ്രെയിമിന്റെ ഇരട്ടിയാണ് ഈയിടെയായി വിളക്കി ചേർക്കുന്നതിന്റെ പുതിയ സംവിധാനങ്ങളുമായി മെച്ചപ്പെടുത്തലുകളോടെ ഉരുക്ക് നുകങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ഫീൽഡ്പോൾ ആണ് ഇന്നത്തെ മെഷീനുകളിൽ പൂർണ്ണമായും ലാമിനേറ്റഡ് പോൾ അല്ലെങ്കിൽ ലാമിനേറ്റഡ് പോൾസ് ഷൂ ഉള്ള സുദൃഢമായ സ്റ്റീൽ തൂണുകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ് അപ്പോൾ ഇന്റർ പോൾ എന്നും വിളിക്കപ്പെടുന്ന കമ്മ്യൂട്ടേറ്റീവ് ധ്രുവങ്ങൾ ഒരു പ്രധാന ധ്രുവത്തിന് സമാനമാണ് കോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിവിധ ആകൃതികളും കോയിലും ഉള്ള ഒരു പോൾ ഷൂവിൽ കോർ ടെർമിനേറ്റിംഗ് അടങ്ങിയിരിക്കുന്നു അതിനാൽ കമ്മ്യൂട്ടേറ്റിംഗ് പോൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ അന്തർധ്രുവത്തിന്റെ പ്രവർത്തനം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കാരണം ഇത് ഒന്നാം വർഷ തലത്തിലുള്ള ചില ആശയങ്ങൾ മാത്രമാണ് അടുത്തത് അർമേച്ചർ ആണ് അർമേച്ചറിൽ കാമ്പും വിൻഡിംഗും അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് കാന്തിക പദാർത്ഥമായതിനാൽ അർമേച്ചർ കോർ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഇരുമ്പ് വൈദ്യുതിയുടെ നല്ല വിദ്യൂച്ഛക്തിവാഹകം കൂടിയാണ് കാന്തികക്ഷേത്രത്തിൽ ഒരു ഖര ഇരുമ്പ് കാമ്പിന്റെ ഭ്രമണം ചുഴി ധാര ഉണ്ടാകാൻ കാരണമാകുന്നു കാമ്പിലെ ചുഴലിക്കാറ്റുകളുടെ ഒഴുക്ക് ഊർജ്ജം പാഴാക്കുന്നതിനും താപ വിസർജ്ജനത്തിന്റെ പ്രശ്നം സൃഷ്ടിക്കുന്നതിനും ഇടയാക്കുന്നു എഡ്ഡി പ്രവാഹങ്ങൾ കുറയ്ക്കുന്നതിന് കാമ്പ് നേർത്ത ലാമിനേഷനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എല്ലായിടത്തും ഒരുപോലെയാണ് നിങ്ങൾ എല്ലാ മെഷീനുകളും കണ്ടാൽ ഇതുപോലെ കാണപ്പെടും അതിനാൽ ഈ കാര്യത്തിനായി മാത്രമാണ് ഞാൻ എഴുതിയത് നഷ്ടം കുറഞ്ഞ സിലിക്കൺ സ്റ്റീലിന്റെ നേർത്ത ലാമിനേഷനാണ് ഡിസി മെഷീനുകളുടെ ആർമേച്ചർ നിർമ്മിച്ചിരിക്കുന്നത് ലാമിനേഷനുകൾ സാധാരണയായി 0 4 മുതൽ 0 5 മില്ലിമീറ്റർ വരെ കട്ടിയുള്ളതും വാർണിഷ് ഉപയോഗിച്ച് ആവരണം ചെയ്തതുമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു ഡിസി മെഷീന്റെ ആർമേച്ചർ ആണ് ഇവയാണ് ലാമിനേഷനുകൾ ഇവയാണ് തഴുതുകൾ അതിനാൽ ആ വൈദ്യുതീതവാഹികൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് പ്രധാന വഴി ഇതാണ് ലാമിനേഷൻ ആണ് ഇത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഇതാണ് വായുദ്വാരം തുടർന്ന് കമ്മ്യൂട്ടേറ്റർ പ്രത്യനുധാര വൈദ്യുതിയെ നേർധാര വൈദ്യുതി ആക്കി മാറ്റുന്നു ഒരു കമ്മ്യൂട്ടേറ്റർ എന്നത് ഒരു സിലിണ്ടർ ഘടനയാണ് ഇത് കഠിനമായി വലിച്ചു നീട്ടിയ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ അംശങ്ങളാൽ നിർമ്മിച്ചതാണ് ഈ അംശങ്ങൾ പരസ്പരം വേർപിരിയപ്പെട്ടിരിക്കുന്നു അതേപോലെ അവയെ മെഷീന്റെ ഫ്രെയിമിൽ നിന്നും മൈക്ക സ്ട്രിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു തരം ഡയഗ്രം ആണ് ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇതാണ് മൈകാനൈറ്റ് വീ റിംഗ് ഈ റൈസർ അല്ലെങ്കിൽ ലഗ് വഴി വൈൻഡിംഗുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കമ്മ്യൂട്ടേറ്ററിൽ നിന്നുള്ള റൈസർ ആണ് ഇത് കോളേജിൽ തുറന്ന ഡിസി മെഷീൻ ഡിസി മോട്ടോർ അല്ലെങ്കിൽ ഡിസി ജനറേറ്റർ കാണാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഇതാണ് ആ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇതിനെ റൈസർ അല്ലെങ്കിൽ ലഗ് എന്ന് വിളിക്കുന്നു ഇതൊരു അംശമാണ് അവയെല്ലാം മൈക്ക പ്രകാരം പരസ്പരം വേർതിരിച്ചിരിക്കുന്നു ഇത് എൻഡ് ക്ലാമ്പ് റിംഗ് ആണ് ഇത് ക്ലാമ്പ് ബോൾട്ടാണ് ഈ കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ച് ഒരു ആശയം നൽകാനുള്ള ഒരു ഷാഫ്റ്റാണിത് അതിനാൽ ഇത് കമ്മ്യൂട്ടേറ്റർ ഘടകമാണ് അതിനാൽ നിങ്ങൾ ആവരണം ചെയ്ത ചെമ്പ് ഘടകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആവരണം ചെയ്ത ചെമ്പ് ഘടകങ്ങൾ ആണ് ഇതിനെയാണ് നിങ്ങൾ കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നത് ഇത് വൈൻഡിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്നിടത്ത് നിന്നുള്ള കമ്മ്യൂട്ടേറ്റർ ലഗുകളാണ് ഇത് എൻഡ് ക്ലാമ്പാണ് നിങ്ങൾ തുറന്ന ഡിസി മെഷീനിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കനം കുറഞ്ഞതും മൈക്കയാൽ വേർതിരിച്ചതുമാണ് ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നു അതിനാൽ ഞാൻ ആവർത്തിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ചില ആശയങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് കാണിക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്തു അതിനാൽ ചിത്രം 7 യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂട്ടേറ്ററിന്റെ ഘടകങ്ങൾ കാണിക്കുന്നു ഒരു കമ്മ്യൂട്ടേറ്റർ പൂർത്തിയാകുമ്പോൾ അതിന്റെ പൊതുവായ രൂപം ഈ ചിത്രം 8 ൽ കാണിച്ചിരിക്കുന്നു അടുത്തത് ബ്രഷ് ഗിയർ ആണ് അത് കറങ്ങുന്ന കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് വൈദ്യുതി ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് വൈദ്യുതി നൽകുന്നതിനോ ആണ് ബ്രഷുകൾ ബ്രഷ് ഹോൾഡറുകൾ ബ്രഷ് സ്റ്റഡുകൾ അല്ലെങ്കിൽ ഗ്ലാസ് ഹോൾഡർ ആയുധങ്ങൾ ബ്രഷ് റോക്കർ വൈദ്യുതി ശേഖരിക്കുന്ന ബ്രഷ് ബാറുകൾ എന്നിവ അടങ്ങിയ ബ്രഷ് ഗിയറാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഡിസി മെഷീനുകൾക്കായി ഉപയോഗിക്കുന്ന ബ്രഷുകൾ 5 തരങ്ങൾ ആയി തിരിച്ചിരിക്കുന്നു ലോഹം ലോഹ ഗ്രാഫൈറ്റ് കാർബൺ ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ഇലക്ട്രോ ഗ്രാഫൈറ്റ് ചെമ്പ് അതിനാൽ ബ്രഷ് കോൺടാക്റ്റിലെ അനുവദനീയമായ നിലവിലെ സാന്ദ്രത കാർബണിന്റെ കാര്യത്തിൽ ഒരു സെന്റീമീറ്റർ ചതുരത്തിന് 5 ആമ്പിയർ മുതൽ ചെമ്പിന്റെ കാര്യത്തിൽ 23 ആംപിയർ സെന്റീമീറ്റർ ചതുരം വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ കുറഞ്ഞ വോൾട്ടേജിൽ വലിയ വൈദ്യുതധാരകൾക്കായി രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങൾക്കായി ചെമ്പ് ബ്രഷിന്റെ ഉപയോഗം നിർമ്മിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം അയവ് വരുത്തിയില്ലെങ്കിൽ അവർ കമ്മ്യൂട്ടേറ്റർ വളരെ വേഗത്തിൽ മുറിക്കുന്നു അങ്ങനെയെങ്കിൽ തേയ്മാനം വേഗത്തിലാണ് അതിനാൽ ഗ്രാഫൈറ്റ് കാർബൺ ഗ്രാഫൈറ്റ് ബ്രഷുകൾ സ്വയം അയയുന്നതും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമാണ് കോളേജിലും ലാബിൽ ഈ ബ്രഷുകൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ഇത് കാർബൺ ഗ്രാഫൈറ്റ് ബ്രഷാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഇവയെല്ലാം ഡിസി യന്ത്രത്തിന്റെ പറ്റിയുള്ള ചില ചെറിയ ചർച്ചകളാണ് അടുത്തത് ഒരു ജനറേറ്ററിന്റെ ഇ എം എഫ് സമവാക്യമാണ് അതിനാൽ അതിൽ നിന്ന് മോട്ടോറിലേക്ക് നീങ്ങും അതിനാൽ P എന്നത് ധ്രുവങ്ങളുടെ സംഖ്യയായിരിക്കട്ടെ കൂടാതെ ∅ ഒരു ധ്രുവത്തിലുള്ള ഫ്ലക്സ് Z മൊത്തം നമ്പർ ആർമേച്ചർ കണ്ടക്ടറുകൾ അതിനാൽ വിടവുകളുടെ എണ്ണം ഒരു സ്ലോട്ടിലെ കണ്ടക്ടറുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ അതാണ് മൊത്തം കണ്ടക്ടറുകളുടെ എണ്ണം കൂടാതെ N വേഗത rpm ആയി നൽകിയിരിക്കുന്നു അത് ഓരോ മിനിറ്റിൽ ഉള്ള ഭ്രമണത്തിന്റെ വേഗത ആണ് കൂടാതെ A അർമേച്ചറിലെ സമാന്തര പാതകളുടെ എണ്ണം ഉദാ ആർമേച്ചറിലെ സമാന്തര പാതയ്ക്ക് ഇ എം എഫ് സൃഷ്ടിച്ചു അടിസ്ഥാനപരമായി ഡിസി മെഷീനുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് ലാപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് om ആണ് ലാപ്പിൽ ബന്ധിപ്പിച്ച DC പാതയുടെ എണ്ണം ധ്രുവങ്ങളുടെ എണ്ണം A P എവിടെയാണ് ഈ A P കണക്ഷൻ വഴി A 2 ആയിരിക്കും എന്നാൽ ഇവ ഈ പാഠ്യപദ്ധതിയുടെ ഉദ്ദേശത്തിൽ നൽകിയിരിക്കുന്നു ഇത് നിങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനുകളിൽ അല്ലെങ്കിൽ മെഷീൻ ഡിസൈനിൽ പഠിക്കു൦ എന്നാൽ ഇവിടെ സമ്പൂർണ്ണതയ്ക്കായി ഇത് സംഖ്യാപരമായും പരിഗണിക്കേണ്ടതുണ്ട് ലാബ് കണക്ഷനായി A എന്നത് P ആയിരിക്കും omന് A എപ്പോഴും 2 ആയിരിക്കും ഇപ്പോൾ ഓരോ വിദ്യൂച്ഛക്തിവാഹകത്തിലും ഉൽപാദിപ്പിക്കുന്ന emf d∅' dt വോൾട്ട് എന്ന് കരുതുക ഇപ്പോൾ ഒരു കാലയളവിൽ ഒരു വിദ്യൂച്ഛക്തിവാഹകത്തിനു കട്ട് ചെയ്യുന്ന ഫ്ലക്സ് d ∅' P ∅ ആയിരിക്കും കാരണം ∅ ഒരു ധ്രുവത്തിലെ ഫ്ലക്സ് ആണ് അതിനാൽ d ∅ P ∅ വെബർ അതിനാൽ ഒരു സെക്കൻഡിൽ ഉള്ള പരിവർത്തനങ്ങളുടെ എണ്ണം എന്ത് കൊണ്ട് എന്നാൽ വേഗതയെ മിനുട്ടിൽ ഉള്ള പരിവർത്തനങ്ങൾ ആയിട്ടാണ് കണക്കാക്കുന്നത് ഇത് സെക്കന്റിൽ ഉള്ള ആവർത്തനമാണെങ്കിൽ അത് N 60 ആയിരിക്കും ഇപ്പോൾ ഒരു പരിവർത്തനത്തിനുള്ള സമയം dt എന്നത് പരസ്പരപൂരകം ആയിരിക്കും ഇത് dt 60 NS സെക്കന്റ് ആയിരിക്കും അതിനാൽ ഓരോ വിദ്യൂച്ഛക്തിവാഹകത്തിലും ഉൽപാദിപ്പിക്കുന്ന emf ഇത് d∅ ' d t ആണ് അതിനാൽ അത് d ∅ 'P P ∅ ആയിരിക്കും dt 60 N ആയിരിക്കും അതായത് P ∅ N 60 വോൾട്ട് നേരെ മുന്നോട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ലാപ് വൈൻഡിംഗ് ജനറേറ്ററിന് സമാന്തര പാതകളുടെ എണ്ണം A P ആയിരിക്കും അതിനാൽ ഒരു ഭാഗത്തെ വിദ്യുച്ഛക്തിവാഹകങ്ങളുടെ എണ്ണം Z A ആയിരിക്കും കാരണം നിങ്ങൾക്ക് A സമാന്തര പാതയുടെ എണ്ണം ആണല്ലോ അതിനാൽ Z A അതിനാൽ ഉത്പാദിപ്പിച്ച വോൾട്ടേജ് P ∅ N 60 ആയിരിക്കും അതായത് ഇത്രയും Z അങ്ങനെ ∅ Z N 60 P A വോൾട് ഇപ്പോൾ ഒരു വേവ് വൈൻഡിംഗിന് യഥാർത്ഥത്തിൽ സമാന്തര പാതകളുടെ എണ്ണം എപ്പോഴും 2 ആണ് A 2 അതിനാൽ ഇവിടെ A 2 അപ്പോൾ അതിനർത്ഥം ഒരു പാതയിലെ കണ്ടക്ടറുകളുടെ എണ്ണം Z 2 Z A അതിനാൽ ഇത് വേവ് കണക്ഷനുള്ളതാണ് അതിനാൽ ഇത് Z 2 Z N ആയിരിക്കും A 2 അതിനാൽ ഇത് വീണ്ടും ഓർക്കാൻ എളുപ്പമാണ് ഇത് ∅ Z N 60 P A ആണ് അതിനാൽ ലാപ് കണക്ഷൻ A P ഒപ്പം വേവ് കണക്ഷൻ A 2 അതിനാൽ Eg ∅ Z N 60 P A വോൾട്ട് ലാപ് വിൻഡിംഗിന് A P വേവ് വിൻഡിംഗിന് A 2 ഇത് സംഖ്യാപരമായ ഭാഗമാണ് നിങ്ങൾ ഇത് മനസ്സിൽ വെയ്ക്കുക അടുത്തത് ഡിസി മോട്ടോറുകൾ തത്വശാസ്ത്രം ഒന്നുതന്നെയാണ് അതിനാൽ വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു യന്ത്രമാണ് ഇലക്ട്രിക് മോട്ടോർ ഇതാണ് ഡിസി മോട്ടോർ അന്തർലീനമായ സ്വഭാവസവിശേഷതകൾ കാരണം ഡിസി മോട്ടോറുകൾ സ്റ്റീൽ പ്ലാന്റ് പേപ്പർ മില്ലുകൾ ക്രെയിനുകൾ ടെക്സ്റ്റൈൽ മില്ലുകൾ പ്രിന്റിംഗ് പ്രസ്സുകൾ എക്സ്കവേറ്ററുകൾ എന്നിവയിൽ വിപുലമായ പ്രയോഗം കണ്ടെത്തുന്നു ഒപ്പം ഗുണങ്ങളുമുണ്ട് ഡിസി മോട്ടോറുകൾക്ക് ഇനിപ്പറയുന്ന ഗുണങ്ങളുണ്ട് ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് വിശാലമായ ശ്രേണിയിലുള്ള വേഗത നിയന്ത്രണം സ്ഥിരമായ ടോർക്ക് ഉപയോഗിച്ച് കൃത്യമായ സ്റ്റെപ്പ്ലെസ്സ് വേഗത നിയന്ത്രണം ദ്രുത പ്രവർത്തനം പിന്നോട്ട് പോക്ക് വേഗവർദ്ധന എന്നിവ നിർത്തുക ഇവയാണ് ഡിസി മോട്ടോറിന്റെ ഗുണങ്ങൾ കമ്മ്യൂട്ടേറ്ററും ബ്രഷ് ഗിയറും ഉള്ളതിനാൽ ചെലവ് കൂടുതലാണ് പ്രവർത്തന പരിപാലന ചെലവുകൾ കൂടുതലാണ് ഇപ്പോൾ ഡിസി മോട്ടറിന്റെ തത്വ പ്രവർത്തനം അതിനാൽ ചിത്രം 9 കാണുക ഞാൻ അടുത്തതായി കാണിക്കുന്ന തത്വം പൊതുവായി ചിത്രീകരിക്കുന്നു ചിത്രം 9a ധ്രുവങ്ങൾ സ്ഥാപിച്ച ഫീൽഡ് കാണിക്കുന്നു കൂടാതെ ചിത്രം 9 b കണ്ടക്ടറിലെ വൈദ്യുത പ്രവാഹം കാരണം ഉണ്ടായ കണ്ടക്ടർ ഫീൽഡ് കാണിക്കുന്നു ഇപ്പോൾ ഇതാണ് യഥാർത്ഥ ചിത്രം ഇപ്പോൾ ഇവിടെ എന്തിനും പോകുന്നതിന് മുമ്പ് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് N S ധ്രുവങ്ങൾ ആയിരിക്കുമ്പോൾ ഫ്ലക്സ് ലൈൻ ഇവിടെ കാണിക്കുന്നു രണ്ടാമത്തെ കാര്യം അതായത് കണ്ടക്ടർ യഥാർത്ഥത്തിൽ അത് കണ്ടക്ടർ ആണ് എന്നാൽ വൈദ്യുതി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അതിനാൽ വൈദ്യുതി സമതലത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തള്ളവിരൽ ഉപയോഗിച്ച് നോക്കുന്ന വൈദ്യുതധാരയുടെ ദിശ ഇതാണ് പിന്നെ ഇതുപോലെ വിരൽ ചുരുട്ടിയാൽ ഫ്ലക്സിൻറെ ദിശയായിരിക്കും ഇവിടെ നോക്കിയാൽ ഇതെല്ലാം ഘടികാരദിശയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒന്ന് ഈ തമ്പ് നിങ്ങൾ സ്ഥാപിച്ച കൈ നിയമം ആണ് തമ്പ്നെയാണ് നിങ്ങൾ വൈദ്യുതധാരയുടെ ദിശ എന്ന് വിളിക്കുന്നത് കാരണം അത് കടലാസിലേക്കോ സമതലത്തിലേക്കോ പോകുന്നു ഇതാണ് ഫ്ലക്സിന്റെ ദിശ അതുപോലെ നിങ്ങൾ ഒരു ഡോട്ട് എടുത്താൽ ഇതാണ് കണ്ടക്ടർ എന്ന് കരുതുക അപ്പോൾ യഥാർത്ഥത്തിൽ വൈദ്യുതിക്ക് എന്ത് സംഭവിക്കും സമക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ പ്ലേറ്റ് വിടുന്ന വൈദ്യുതി മുകളിലേക്ക് നീങ്ങുക അങ്ങനെയെങ്കിൽ ഫ്ലക്സിന്റെ ദിശ എതിർ ഘടികാരദിശയിലായിരിക്കും ഫ്ളക്സിന്റെ ദിശ എതിർ ഘടികാരദിശയിലായിരിക്കും ഇത് ഇതിന് വിപരീതമായി നിങ്ങൾ തമ്പ്നിയമം ഉപയോഗിക്കും അതായത് നിങ്ങൾ ഈ കണ്ടക്ടർ കൊണ്ടുവരുമ്പോഴെല്ലാം NS NS ഇതുപോലെ നൽകിയിരിക്കുന്നു എപ്പോഴൊക്കെ ഈ കണ്ടക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഫ്ലക്സ് 9flux N മുതൽ S വരെയാണ് അത് പോകുന്നു ഈ മുകൾഭാഗം ഘടികാരദിശയിലാണ് അതായത് ഇത് ഘടികാരദിശയിലാണ് ഈ മുകൾഭാഗം യഥാർത്ഥത്തിൽ സംയോജിപ്പിക്കാവുന്നത് ആണ് താഴത്തെ വശം അത് കുറയ്ക്കുന്നതാണ് അതുപോലെ ഇവിടെ താഴത്തെ വശം സംയോജിപ്പിക്കാവുന്നത് ആണ് കാരണം അത് എതിർ ഘടികാരദിശയും മുകൾഭാഗം കുറയ്ക്കുന്നതുമാണ് അപ്പോൾ ബലം യഥാർത്ഥത്തിൽ ഇവിടെ താഴേക്ക് പ്രവർത്തിക്കുന്നു ഇവിടെ അത് മുകളിലേക്ക് ആണ് അതിനാൽ ആ ഭ്രമണ സംവിധാനം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് അതിനർത്ഥം നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ദിശയാണ് നിങ്ങൾ ഇവിടെ ഇട്ടാൽ ഇതും ദിശയാണ് അതിനാൽ രണ്ട് ഫ്ലക്സുകളും ഒരേ ദിശയിലായിരിക്കും അതിനാൽ അന്തിമമായി ഇത് കൂട്ടിചേർക്കപ്പെട്ട പോലെ ആണ് അതിനാലാണ് ബലം താഴേക്ക് പ്രവർത്തിക്കുന്നത് ഇവിടെ എതിർവശത്ത് ശക്തി യഥേഷ്ടം പ്രവർത്തിക്കുന്നു അതിനാൽ അതിനർത്ഥം വൈദ്യുതധാര വഹിക്കുന്ന ചാലകങ്ങൾ സ്ഥാപിക്കുകയും കാന്തിക മണ്ഡലത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആണ് ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ ഇത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അത് സങ്കലനവും കുറയ്ക്കലും എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഇത് വ്യക്തമായി കാണിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന കണ്ടക്ടറിൽ ഒരു ശക്തിയുണ്ട് അത് താഴേക്ക് നീങ്ങുന്നു അങ്ങനെ ബലം ദുർബലമായ ഫീൽഡിന്റെ ദിശയിൽ പ്രവർത്തിക്കുന്നു ഞാൻ ഡയഗ്രാമിൽ കാണിച്ചത് കണ്ടക്ടറിലെ വൈദ്യുതി തിരിച്ചു വിടുമ്പോൾ അതാണ് രണ്ടാമത്തെ രേഖാചിത്രത്തിൽ കാണുന്നത് ബലവും വിപരീതമാണ് കൂടാതെ അത് ദുർബലമായ ഫീൽഡിൽ താഴെയായി പ്രവർത്തിക്കുന്നു ഇവിടെയും അതിനാൽ ഇപ്പോൾ പൊതുവെ കണ്ടക്ടറിൽ വികസിപ്പിച്ച ബലം നൽകുന്നത് F B I l ന്യൂട്ടൺ N N ഇവിടെ ന്യൂട്ടൺ ആണ് അതിനാൽ B എന്നത് ഒരു മീറ്ററിലെ ഫ്ളക്സ് ഡെൻസിറ്റി വെബർ ആണ് കൂടാതെ I ആണ് കണ്ടക്ടറുകളിലെ വൈദ്യുതി അത് ആമ്പിയർ ആണ് കൂടാതെ l ആണ് കണ്ടക്ടറുടെ മീറ്ററിലെ നീളം ഇപ്പോൾ ഒരു ഡിസി മോട്ടോറിന്റെ കാന്തികക്ഷേത്രം പരിഗണിക്കുക അർമേച്ചർ കണ്ടക്ടറുകളിൽ വൈദ്യുതി ഇല്ലെന്ന് നിങ്ങൾക്കറിയാം ഫ്ലക്സ് പാതയുടെ വരികൾ ചിത്രം 10 ൽ കാണിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഡയഗ്രം കാണുകയാണെങ്കിൽ ഇവ സ്ഥാപിച്ചിരിക്കുന്ന വിദ്യുച്ഛക്തിവാഹകങ്ങളാണ് കൂടാതെ വിദ്യുച്ഛക്തിവാഹകങ്ങൾ വൈദ്യുതധാരകളൊന്നും വഹിക്കുന്നില്ലെന്ന് കരുതുക അതിനാൽ ഇത് N മുതൽ S വരെയുള്ള ഫ്ലക്സ് പാതയാണ് ഇതാണ് വിദ്യുച്ഛക്തിവാഹകങ്ങൾ ഇത് അർമേച്ചർ ആണ് അതിനാൽ ഒരു മോട്ടോറിലെ ഫ്ളക്സ് ലൈനിന്റെ വിതരണം കാന്തികക്ഷേത്രം മൂലമാണ് എന്നാൽ വൈദ്യുതധാര വഹിക്കുന്നില്ല അതിനാൽ അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ വൈദ്യുതിവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഈ വശം ആണ് കഴ്സർ നോക്കൂ ഈ വശം ആണ് ഈ വശത്തെ നിങ്ങൾ ഡോട്ട് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് പരിശോധിച്ച് ആ കൈ നിയമം പ്രയോഗിക്കുന്നുണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ഫ്ലക്സിന്റെ ആ ദിശ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് N മുതൽ S വരെ സ്വാഭാവികമായും മുകളിലെ ഭാഗം ആണ് ഇതാണ് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ കൺവെൻഷൻ വൈദ്യുതി അനുസരിച്ച് തുടരാനാകും അതിനാൽ ഈ വശം കൂട്ടിച്ചേർക്കാവുന്നത് കൂടാതെ ബലം താഴെയായി പ്രവർത്തിക്കുകയും താഴത്തെ ഭാഗം കൂട്ടിച്ചേർക്കുകയും ചെയ്യും ബലം മുകളിലേക്ക് പ്രവർത്തിക്കും അതിനാൽ ഇവിടെ എല്ലായിടത്തും താഴേക്ക് ഇവിടെ എല്ലായിടത്തും അത് മുകളിലേക്ക് ആണ് അതിനാൽ അവബോധത്തിൽ നിന്ന് അത് ഘടികാരദിശയിൽ കറങ്ങാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ മുമ്പത്തെ സ്ലൈഡിലെ ഡയഗ്രാമിൽ ഞാൻ കാണിച്ച അതേ തത്വശാസ്ത്രം ഇതാണ് ഈ ഡയഗ്രം ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആർമേച്ചർ വൈദ്യുതി വഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ കണ്ടക്ടറുകളും ഒരു കാന്തികക്ഷേത്രം ഉൽപ്പാദിപ്പിക്കും അത് പ്രധാന ഫീൽഡിൽ അധ്യാരോപം ചെയ്യുമ്പോൾ ചിത്രം ഒന്നിൽ കാണിച്ചിരിക്കുന്നതുപോലെ കാന്തിക രേഖകളുടെ വിതരണത്തിന് കാരണമാകുന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടിസ്ഥാന തത്വശാസ്ത്രം ഇങ്ങനെയാണ് അതിനാൽ ചിത്രം 11 ൽ കാണുന്ന കാന്തികക്ഷേത്രം വളച്ചൊടിച്ചതായി പറയപ്പെടുന്നു കാരണം ബലരേഖകൾ ഏകദേശം നേർവഴികൾ പിന്തുടരുന്നില്ല ഇത് വികലമാണ് കാരണം ഇത് ഒരു നേർരേഖ പാത പിന്തുടരുന്നില്ല അതിനാൽ ഈ ശക്തിരേഖയ്ക്ക് സ്വയം ചെറുതാകാനും സ്വയം ചെറുതാക്കാനുമുള്ള പ്രവണതയുണ്ട് അതിനാൽ അവർ പിരിമുറുക്കത്തിലാണെന്ന് കണക്കാക്കാം ചിത്രം 11 ലെ ഓരോ കണ്ടക്ടർക്കും ഒരു ശക്തി അനുഭവപ്പെടും അത് എങ്ങനെ അനുഭവപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ കണ്ടക്ടറുകൾ അർമേച്ചറിലെ സ്ലോട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ രണ്ടാമത്തേത് ഘടികാരദിശയിൽ കറങ്ങാൻ കാരണമാകുന്നു അതിനാൽ അത് ഘടികാരദിശയിൽ കറങ്ങുകയും ഈ കണ്ടക്ടറുകൾ ഒരു സ്ലോട്ടിൽ സ്ഥാപിക്കുകയും ചെയ്യും അടുത്തത് ഒരു മോട്ടറിന്റെ പിൻഭാഗത്തെ emf ആണ് സാധാരണയായി ചിത്രം 12 ൽ പരാമർശിക്കുന്നു ഇതൊരു മോട്ടോറാണ് നിങ്ങൾ എടുത്തതായി കരുതുക ആ കണ്ടക്ടറും കറന്റും വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ അത് സമതലത്തിലേ ക്ക്പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും അതേ തത്ത്വചിന്ത ആയിരിക്കും ഇതാണ് വൈദ്യുതി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനാൽ ഇത് ഇതുപോലെ നീക്കുക തള്ളവിരലാണ് വൈദ്യുതധാരയുടെ ദിശ തുടർന്ന് നിങ്ങൾ ആ ചിത്രം 1 മനസ്സിലാക്കുക ഇതാണ് ഫ്ലക്സിന്റെ ദിശ അതിനാലാണ് ഇത് ഇവിടെ കാണിക്കുന്നത് അതിനാലാണ് ഇത് ഇവിടെ കാണിക്കുന്നത് കൂടാതെ ഈ N ലേക്ക് S ആ ഫ്ലക്സ് രേഖ N മുതൽ S വരെ ആയിരിക്കും അതിനാൽ സ്വാഭാവികമായും ഈ ശക്തിയാണ് ശക്തമായ കാന്തികക്ഷേത്രത്തിൽ നിന്ന് ദുർബലമായ ഒന്നിലേക്ക് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇതാണ് ബലത്തിന്റെ ദിശ സ്വാഭാവികമായും ഇത് ചലനത്തിന്റെ ദിശയാണ് അതിനാൽ ഒരു ഡിസി മോട്ടോറിൽ ആർമേച്ചർ കറങ്ങുമ്പോൾ അതിലെ വിദ്യുച്ഛക്തി വാഹകങ്ങൾ ബലത്തിന്റെ അതിർവരമ്പുകൾ മുറിക്കുന്നു അവ കറങ്ങുന്ന കാന്തികക്ഷേത്രത്തിന്റെ ബലത്തിന്റെ അതിർവരമ്പുകൾ മുറിക്കുന്നു അതിനാൽ ആ emf ഒരു ജനറേറ്ററിലെന്ന പോലെ അർമേച്ചറിലും ഉത്പാദിപ്പിക്കപ്പെടുന്നു അതിനാൽ ഇത് പ്രവർത്തനത്തിലുള്ള മോട്ടോർ ആണ് ഇതാണ് അർമേച്ചർ ഇതുതന്നെയാണ് തത്ത്വശാസ്ത്രം ഇവിടെ N ധ്രുവം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതാണ് ബാക്ക് ഇഎംഎഫ് അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും യന്ത്രത്തിലെ വൈദ്യുതധാരയ്ക്കും പ്രയുക്ത വൈദ്യുതിക്കും എതിരായി ഉത്പാദിപ്പിക്കപ്പെടുന്ന emf പ്രവർത്തിക്കുന്നു അതിനാൽ ഈ വോൾട്ടേജിനെ ബാക്ക് emf എന്ന് വിളിക്കുന്നത് പതിവാണ് ഇപ്പോൾ ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലെൻസിന്റെ നിയമത്തിലൂടെ ഊഹിക്കാവുന്നതേയുള്ളൂ അത് പ്രസ്താവിക്കുന്ന ഒരു ഉത്പാദിപ്പിക്കപ്പെടുന്നഇ ഇഎംഎഫിന്റെ ദിശ അതിന് കാരണമായ പ്രയോഗിച്ച വോൾട്ടേജായ വ്യതിയാനത്തെ എതിർക്കുക എന്നതാണ് അതിനാൽ അതിനർത്ഥം നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ദിശ ഇതാണ് ഇതാണ് എന്റെ ബാക്ക് emf Eb യഥാർത്ഥത്തിൽ വൈദ്യുതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വൈദ്യുതി ഇതിൽ നിന്ന് മോട്ടോറിനായി പോകുന്നു ഇതൊരു പദ്ധതിരൂപത്തിൽ ഉള്ള ഒരു രേഖാചിത്രം മാത്രമാണ് എന്നാൽ നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് ബന്ധിപ്പിക്കുമ്പോൾ അത് കാണും അതിനാൽ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രയോഗിച്ച വോൾട്ടേജിന് കാരണമാകുന്ന മാറ്റത്തെ എതിർക്കുന്നത് പോലെയുള്ള ഒരു ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇഎംഎഫിന്റെ ദിശ പ്രസ്താവിക്കുന്ന ലെൻസിന്റെ നിയമത്തിലൂടെ ഇത് കണക്കാക്കാം അതിനാൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇഎംഎഫ് ജനറേറ്ററിനായുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് ബാക്ക് ഇഎംഎഫിന്റെ അളവ് കണക്കാക്കാം Eb ∅ Z N 60 P A എന്ന സൂത്രവാക്യം ബാക്ക് ഇഎംഎഫിന് സമാനമായിരിക്കും അതായത് ZP 60 A ∅∅ N അതിനാൽ ZP 60 A ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ Eb എന്നത് ഒരു മോട്ടോർ ബാക്ക് emf ന് k ∅ N എന്ന് എഴുതാം അതിനാൽ k ZP 60 A കാരണം Z ഒരു സ്ഥിരാങ്കമാണ് P ഒരു സ്ഥിരാങ്കമാണ് A ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ ഇത് സ്ഥിരമാണ് അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ emf എന്ന് വിളിക്കുന്നത് ഇതാണ് നിങ്ങൾ ആ സമയത്ത് സംഖ്യകൾ എടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ സാഹചര്യത്തിൽ ബാക്ക് emf എല്ലായ്പ്പോഴും പ്രയോഗിച്ച വോൾട്ടേജിനേക്കാൾ കുറവാണ് എന്നിരുന്നാലും സാധാരണ അവസ്ഥയിൽ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ വ്യത്യാസം വളരെ ചെറുതാണ് അതിനാൽ ഈ രണ്ട് തല അളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ അർമേച്ചർ സർക്യൂട്ടിന്റെ പ്രതിരോധത്തിലൂടെ വൈദ്യുതധാരയെ നയിക്കുന്നത് അത് പിന്നീട് കാണാം ആർമേച്ചറിന്റെ പ്രതിരോധം r a ആണെങ്കിൽ ബാക്ക് emf Eb ആണെങ്കിൽ ഉപയുക്ത വൈദ്യുതി V ആണ് അപ്പോൾ ഈ സമവാക്യം ഉണ്ടായിരിക്കുക V Eb I a r a ഇത് കാണും ഇത് പിന്നീട് കാണും